സൂചക പദങ്ങൾ വീടിൻ്റെ മൂലയിൽ ഒരു അടുക്കള A Kitchen in the Corner of the House പുരുഷാധിപത്യ സംസ്കാരം ഹലോ അംബൈ തമിഴ് ഭാഷയിൽ രചിച്ച വീടിൻ്റെ മൂലയിൽ ഒരു അടുക്കള എന്ന അർത്ഥം വരുന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ കഥയുടെ പശ്ചാത്തലത്തിൽ പുരുഷാധിപത്യ സംസ്കാരത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു വിശകലനത്തിലൂടെ നാം കടന്നുപോയി ഈ പ്രഭാഷണം തൊട്ടുമുമ്പുള്ളതിൻ്റെ തുടർച്ചയാണ് അതിനാൽ നമുക്കു മുന്നിൽ ഒരു ഉല്ലാസ യാത്ര പുരോഗമിക്കുകയാണ് അതായത് വാസ്തവത്തിൽ ഒരു ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലാം കൃത്യസമയത്ത് പൊതിഞ്ഞെടുക്കുന്നതിനായി സ്ത്രീകൾ തിടുക്കപ്പെട്ട് അടുക്കളയിൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് പൂരികൾ ഉരുളക്കിഴങ്ങ് കറികൾ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ടാന് അവർ ഈ കഠിനമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിനിടയിൽ പെട്ടെന്ന് അടുക്കളയ്ക്കു പുറത്ത് നിന്ന് ഒരു ശബ്ദം ഉയരുന്നു അടുക്കളയിൽ എന്താണ് ഒരു കോലാഹലം നിങ്ങൾ ഞങ്ങളെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ലല്ലോ എന്നൊരു ശബ്ദമാണ് ഉയർന്നു കേട്ടത് അങ്ങനെ അടുക്കളയിൽ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ അവർ വർത്തമാനം പറയാറുണ്ട് പലതരം ഭക്ഷണസാധനങ്ങൾ ഒരുക്കുന്ന സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് സംസാരം അതിനാൽ അടുക്കളയിൽ ഏതാണ്ട് വളരെ സൌഹാർദ്ദപരമായ അന്തരീക്ഷമുണ്ട് എന്നു പറയാം ആ സ്ത്രീകൾക്കിടയിൽ സഹൃദയത്വമുണ്ട് അവർ തമ്മിൽ ധാരാളം വിവരങ്ങൾ കൈമാറുന്നു ബന്ധങ്ങൾ രൂപപ്പെടുന്നു ജീവിതശൈലി രൂപപ്പെടുന്നു നിങ്ങൾക്കറിയാമോ അവർക്കിടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് മാത്രമല്ല അവർ തമ്മിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു കൂടാതെ ദിവസേന എന്ന തരത്തിൽ തങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്ന വസ്തുതയെക്കുറിച്ച് പരിഹാസത്തോടെയുള്ള പ്രതികരണങ്ങളും ആ സ്ത്രീകൾ നൽകുന്നുണ്ട് കൂടാതെ അടുക്കളയ്ക്ക് പുറത്തു നിന്ന് അവരുടെ ശ്രദ്ധയെ തിരികെ ജോലിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിച്ചു സ്ത്രീകളുടെ ചർച്ചയെ വിശേഷിപ്പിക്കുവാൻ പുറത്തുള്ള വ്യക്തി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോലാഹലം അഥവാ റാക്കറ്റ് എന്ന വാക്കാണ് ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്നാൽ ഒരുപാട് ശബ്ദങ്ങൾ ആശയക്കുഴപ്പത്തിലായ ശബ്ദം എന്നൊക്കെയാണ് വാസ്തവത്തിൽ ഇവിടെ ഉള്ളത് ഒരു കോലാഹലം അല്ല നിങ്ങൾ ഈ കഥ വളരെ സൂക്ഷ്മമായി വായിച്ചാൽ സ്ത്രീകൾ ഏറ്റെടുത്തു നടത്തുന്ന ആ ചർച്ചകൾ ഒന്നും തന്നെ കോലാഹലങ്ങളല്ല എന്ന് മനസ്സിലാകും വാസ്തവത്തിൽ അവ ഭാരതീയ സമൂഹത്തിലെ ലിംഗപരമായ അസന്തുലിതാവസ്ഥയെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇവിടെ നമുക്ക് ഒരു ശബ്ദം ഉണ്ട് അത് ഒരു പുരുഷ ശബ്ദമാണ് നിങ്ങൾ ഞങ്ങളെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ആ ശബ്ദം മിക്കവാറും പാപ്പാജിയുടേതു തന്നെയാണ് നിങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരായ ഞങ്ങളെ ഉറങ്ങാൻ അനുവദിക്കില്ലല്ലോ എന്ന പരിഭവം കേൾക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് പെട്ടെന്ന് ഒരു നിശബ്ദത ഉണ്ടാകുന്നു കാരണം അവരോട് നിശ്ശബ്ദമാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നു വാസ്തവത്തിൽ തങ്ങൾ എന്തോ തെറ്റു ചെയ്തു എന്ന ഒരു തോന്നൽ സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു അതുകൊണ്ട് അവർ പെട്ടെന്നു തന്നെ തമ്മിലുള്ള സംസാരം നിർത്തി ശാന്തരാകുന്നു അതിനാൽ ഇത് വളരെ രസകരമായ ഒരു ധാരണയാണ് അതായത് നിങ്ങൾക്കറിയാവുന്നതു പോലെ ഈ ഒരു ധാരണ കാരണമാകാം അവരുടെ സംസാരം പതിഞ്ഞ സ്വരത്തിൽ ആകാൻ തുടങ്ങിയത് മീനാ നീ ആ ചെറിയ സ്റ്റൌവിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുക്കാമോ എന്ന സംഭാഷണം നോക്കൂ തൊട്ടു മുമ്പ് അവർ ശാസിക്കപ്പെടുകയുണ്ടായി പുരുഷന്മാരെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാൽ അവർ അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കി ആ ശാസനയ്ക്ക് അനുസൃതമായി പെരുമാറുകയും ചെയ്യുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഉപകഥയുടെ ശീർഷകം ഉല്ലാസ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പും പുരുഷന്മാരുടെ സുഖലോലുപതയും picnic preparation and mens comfort എന്നാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ഉല്ലാസ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ ഇത്രയധികം അദ്ധ്വാനം ഉൾപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുരുഷന്മാരുടെ സുഖസൌകര്യങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ അദ്ധ്വാനത്തെ ക്രമീകരിക്കുകയും വേണം അതിനാൽ ലിംഗപരമായ വേഷങ്ങളിൽ നിന്ന് രൂപം കൊണ്ട വളരെ പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു രംഗമാണിത് ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു കോലാഹലം ഉണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ സംഭാഷണത്തിൻ്റെ മാത്രം കോലാഹലമാകണമെന്നില്ല അത് ഭക്ഷണം ഉണ്ടാക്കുക തയ്യാറാക്കുക എല്ലാ പാത്രങ്ങളും കൊണ്ടുവരിക എല്ലാ സാധനങ്ങളും പാത്രങ്ങളിലേക്ക് പകർന്നു വയ്ക്കുക തുടങ്ങിയ അദ്ധ്വാനങ്ങളുടെ ഭാഗമായ ബഹളവുമാകാം അവർ ഭക്ഷണം പാചകം ചെയ്യുക മാത്രമല്ല അവ പൊതിഞ്ഞെടുക്കുകയും ചെയ്യുന്നു പ്രത്യേകമായ ഈ സന്ദർഭത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നത് ഈ ശാസനയോട് സ്ത്രീകൾ ഒരു തരത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് അതായത് ഈ ശാസന ഉടനടി ആ അടുക്കളയിൽ ഒരു വിധത്തിലുള്ള അച്ചടക്കം കൊണ്ടുവരുന്നു അതായത് സ്ത്രീകളുടെ ശബ്ദത്തെ അത് അടിച്ചമർത്തുന്നു എന്ന അർത്ഥത്തിൽ അതിനാൽ ഉടനടിയുള്ള ഈ ഉത്തരവ് പുരുഷാധിപത്യത്തിൻ്റെ അധികാരി തന്നെ നടപ്പിലാക്കുന്നു ഇവിടെ ആ അധികാരി പാപ്പാജിയാണ് ഇതു നമുക്ക് ധൈര്യമായി പറയുവാൻ സാധിക്കും കൂടാതെ രാധ ഏട്ടത്തി പോലും കുട്ടികളെ ഒരുക്കുന്ന പ്രവർത്തനത്തിൽ തൻ്റെ ഭർത്താവ് ഒട്ടും സഹായിക്കില്ല എന്ന വസ്തുതയെക്കുറിച്ച് പരിഹാസത്തോടെ അഭിപ്രായം പറയുന്ന സന്ദർഭം നോക്കൂ അവിടെ നാം ശ്രദ്ധിക്കേണ്ടതായ വസ്തുത എന്നത് അവൾ തൻ്റെ പരിഭവം മുഴുവൻ ആ ഒറ്റയൊരു പരിഹാസത്തിൽ ഒതുക്കുന്നു എന്നതാണ് കൂടാതെ വാസ്തവത്തിൽ അവളുടെ ഭർത്താവ് ഉത്തരവാദിത്വങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ല അതായത് ഗാർഹികവും കുടുംബപരവുമായ ഉത്തരവാദിത്വങ്ങളിൽ പങ്കുചേരുന്നില്ല ഇതിനെതിരേ അവൾ ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം അത്തരത്തിലുള്ള എതിർപ്പുകളും പരാതികളുമൊന്നും അവൾ ഉന്നയിക്കുന്നില്ല അത് വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യമാണ് ഇതേപ്പറ്റി പറയുമ്പോൾ രസകരമെന്നോ പ്രാധാന്യമുള്ളതെന്നോ ഉള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കില്ല അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടതായി വരുന്ന ഇത്തരം ഇരട്ടത്താപ്പിനെതിരെ എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നത് വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യമാണെന്നേ ഞാൻ പറയുള്ളൂ അങ്ങനെ അവർ ആ ഉല്ലാസ യാത്രയ്ക്കായി തയ്യാറെടുത്തു കഴിഞ്ഞു അപ്പോഴേക്കും സമയം 8 മണി ആയി കഥാകൃത്ത് ഇപ്രകാരം പറയുന്നു "എട്ട് മണി ആയപ്പോഴേക്കും അവരുടെ കഴുത്തിലും കക്ഷത്തിലും വിയർപ്പിൻ്റെ മഴ പെയ്യുന്നുണ്ടായിരുന്നു വസ്ത്രങ്ങൾ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു എണ്ണ കത്തിയ പുക അവരുടെ കണ്ണുകളിൽ നീറ്റലുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു ഉറക്കക്കുറവ് കാരണം അവരുടെ കൺപോളകൾക്ക് ഭാരം തോന്നി തുടങ്ങിയിരുന്നു പാപ്പാജി അടുക്കളയിലേക്ക് എത്തിനോക്കി ഈ പ്രസ്താവനകൾ വളരെ സാവധാനത്തിൽ എടുത്തു പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ പരാമർശിച്ച കഴുത്ത് കക്ഷം വസ്ത്രങ്ങൾ എന്നീ വാക്കുകൾ നോക്കിയാൽ അതിനോടൊപ്പം എവിടെയും ഒരു പ്രത്യേക സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല രാധ ഏട്ടത്തി വിയർത്തു എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവിടെ ഒരിടത്തും പരാമർശമില്ല മീനാക്ഷിയുടെ വസ്ത്രം ദേഹത്ത് പറ്റിപ്പിടിച്ചിട്ടുണ്ടെന്ന വസ്തുതയെക്കുറിച്ച് പരാമർശമില്ല എന്നും നിങ്ങൾക്കറിയാം കാരണം അവരെ ഒക്കെയും മിക്കവാറും കഴുത്തുകളായും കക്ഷങ്ങളായും വസ്ത്രങ്ങളായും അവരുടെ വസ്ത്രങ്ങളുടെ ഭാഗങ്ങളായും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നു തോന്നും ഏറെക്കുറെ അവരുടെ സ്വത്വങ്ങൾ വേർപെടുത്തപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അവരുടെ വ്യക്തിത്വം എന്നത് അദ്ധ്വാനിക്കുന്ന ശരീരഭാഗങ്ങൾ മാത്രമായി മാറുന്നു മാത്രമല്ല അവരുടെ മുഴുവൻ കുടുംബത്തിൻ്റെയും പ്രയോജനത്തിനായി അവർ അടുക്കളയിൽ ചെയ്ത അദ്ധ്വാനം അവരുടെ ബാഹ്യ പ്രകൃതിയെ പോലും ബാധിക്കുകയും ചെയ്യുന്നു കൂടാതെ പാപ്പാജിയുടെ പ്രതികരണം ഇവിടെയുണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നു തടാകത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചു പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ പലരും ആവേശത്തോടെ കുതിക്കാൻ തുടങ്ങി ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം ഉറക്കെ ചിരിച്ചു വീണ്ടും ഇവിടെ സ്ത്രീകൾ ഒരു വിഭാഗമെന്ന നിലയിൽ എല്ലാവരേയും ഒരുമിച്ചു കൊണ്ടുവരുന്ന മഹത്തായ വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ ഓരോ സ്ത്രീയും ഇവിടെ അവരുടെ ജോലികൾ ചെയ്യുന്നു അവരുടെ രൂപഭാവം ശ്രദ്ധിക്കൂ ഉറക്കക്കുറവ് കാരണം അവരുടെ കൺപോളകൾ വളരെ ഭാരമുള്ളവ ആയി മാത്രമല്ല അവർ ശരിക്കും ക്ഷീണിച്ചു തളർന്നവരായി മാറി ആ സ്ത്രീകൾ എല്ലാവരും ആവേശത്തോടെ കുതിക്കുകയാണെന്ന് പാപ്പാജി പറയുന്നു അത് വളരെ രസകരമായ ഒരു അഭിപ്രായ പ്രകടനമാണ് അതു പറഞ്ഞ ശേഷം അയാൾ ഉറക്കെ ചിരിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രഭാതം മുതൽ വളരെ കഠിനമായ അദ്ധ്വാനം ചെയ്യുന്ന ആ സ്ത്രീകളുടെ ശാരീരികമായ അവസ്ഥയെപ്പറ്റി കൂടിയാണ് സവിശേഷമായ ആ ഒരു ഭാഗം നമ്മോട് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ അവർ തളർച്ചയും ക്ഷീണവും കൊണ്ട് അവശരായി തീർന്നിരിക്കുന്നു അവരുടെ ക്ഷീണത്തെ നിരീക്ഷിക്കുന്നതിനുപകരം അവരുടെ ശാരീരിക ക്ലേശങ്ങളെ നിരീക്ഷിക്കുന്നതിനുപകരം നിരീക്ഷകൻ ചെയ്യുന്നത് ആ സ്ത്രീകളുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്നും വിപരീതദിശയിലുള്ള ഒരു മലക്കം മറിച്ചിലാണ് അതിനാൽ നിരീക്ഷകൻ്റെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പോലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മലക്കം മറിച്ചിലാണ് ഇത് അതിനാൽ ഈ സ്ത്രീകൾ വിയർപ്പാൽ പൊതിഞ്ഞിരിക്കുന്നതും അവരുടെ കണ്ണുകൾ എണ്ണ ചൂടാകുമ്പോൾ പുറത്തേക്കു വരുന്ന പുകയിൽ നീറുന്നതും നിരീക്ഷകൻ കാണുന്നില്ലേ അയാൾ അക്ഷരാർത്ഥത്തിൽ അന്ധനാണോ അതോ ആശയപരമായ അന്ധത ബാധിച്ച ആളാണോ അതുകൊണ്ട് നാം ചോദിക്കേണ്ടതായ ചില ചോദ്യങ്ങളാണ് ഇവയെല്ലാം ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന ചോദ്യം തലയെക്കുറിച്ചാണ് അതായത് തല എന്നതു കൊണ്ട് ഞാൻ പരാമർശിക്കുന്നത് കുടുംബനാഥനായ പാപ്പാജിയെ ആണ് പാപ്പാജി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി ആണോ പാപ്പാജിയുടെ കണ്ടറിവ് മനഃപൂർവ്വമായ അന്ധതയെ ആണോ പ്രതിനിധീകരിക്കുന്നത് അതോ അയാൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളാണോ അതോ മനഃപൂർവം ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുവാൻ അയാളെ ആരെങ്കിലും പരിശീലിപ്പിച്ചിട്ടുണ്ടോ അതോ ഇത് വളരെ ഗുരുതരമായ രീതിയിൽ തെറ്റായി മനസ്സിലാക്കുന്നതാണോ അതോ മനഃപൂർവ്വം തെറ്റായി മനസ്സിലാക്കുന്നതായി ഭാവിക്കുന്നതാണോ അതായത് അയാൾ സ്ത്രീകളുടെ അവസ്ഥയെ മനഃപൂർവ്വം തെറ്റായി വായിച്ചെടുക്കുന്നതാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ട് എന്നത് നാം ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഈയൊരു കഥയിൽ നേരിട്ടുള്ള ഒരു ഉത്തരം അംബൈ നൽകുന്നില്ല കാരണം ആ ചോദ്യത്തിന് നേരായ ഒരു ഉത്തരമില്ല തന്നെ വാസ്തവത്തിൽ ഈ സാഹിത്യ കൃതിയിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ജീവിതശൈലിയിലൂടെ ചില അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ അംബൈ ആഗ്രഹിക്കുന്നു നാം അതേക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ സ്വന്തം ഉത്തരങ്ങൾ കണ്ടെത്താനും കഥാകാരി ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ ഈ കഥയെ നോക്കിയാൽ ഇത് ഒരർത്ഥത്തിൽ സ്ത്രീകൾ ആധിപത്യം പുലർത്തുന്ന ഒരു കഥയാണ് ആ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് തന്നെ ആണ് പ്രധാനമായും അംബൈ വെളിച്ചം വീശുന്നത് എന്ന വസ്തുതയിൽ നിന്നാണ് ആ ഒരു അർത്ഥം വരുന്നത് അവരുടെ കഷ്ടപ്പാടുകളും വിവിധ കാര്യങ്ങളോടുള്ള അവരുടെ മനോഭാവവും നിങ്ങൾക്കറിയാം വാസ്തവത്തിൽ സ്ത്രീകളുടെ വേഷങ്ങളെക്കുറിച്ചുള്ള സ്ത്രീകളുടെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകളുടെ വേഷങ്ങളെക്കുറിച്ചുള്ള പുരുഷന്മാരുടെ അഭിപ്രായങ്ങൾ ഈ കഥയിൽ വളരെ കുറവാണ് ഇവിടെ പാപ്പാജിയുടേത് പോലെയുള്ള അഭിപ്രായങ്ങൾ സാധാരണമല്ല അത് യഥാർത്ഥത്തിൽ ഒരു അപവാദമാണ് അത് നമ്മൾ ചിന്തിക്കുകയും സ്വയം ചോദിക്കുകയും ചെയ്യേണ്ടതായ കാര്യമാണ് എന്തുകൊണ്ട് അംബൈ പുരുഷന്മാരുടെ നേരേ ശ്രദ്ധ തിരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവൾ ജിജി ബാരി ജിജി മുതൽ രാധ ഏട്ടത്തി വരെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളുടെ ഈ നിരയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്നത് അതിനു പുറമേ ഞാൻ അൽപ്പസമയത്തിനുള്ളിൽ വിവരിക്കുവാൻ പോകുന്ന മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളിലേക്കും പിന്നെ എന്തിനാണ് ഈ പ്രത്യേക താൽപ്പര്യം എന്തുകൊണ്ടാണ് ഈ പ്രയോഗം സ്ത്രീകളെ കുറിച്ചായത് എന്തുകൊണ്ട് പുരുഷൻമാരെ കുറിച്ച് ആയില്ല അതിനാൽ ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം ഉത്തരങ്ങളെക്കുറിച്ചും നമുക്ക് തന്നെ ഊഹിക്കാം പാപ്പാജിയുടേത് മനഃപൂർവ്വമുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ആകാനാണ് സാധ്യത കാരണം പാപ്പാജി ഒരു മണ്ടനല്ല ഒന്നു കൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതു പോലെ എൻ്റെ കഥയുടെ ആദ്യത്തെ വിശകലനങ്ങളിൽ ഒന്നിൽ പാപ്പാജി മീനാക്ഷിയെ എപ്രകാരം മനസ്സിലാക്കി എന്നതിനെപ്പറ്റി ഞാൻ സംസാരിച്ചതാണ് മീനാക്ഷിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു രാജസ്ഥാനി സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണത ഉള്ള മരുമകളുടെയും അതുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകളുടെയും കാര്യത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു ധാരണയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വീക്ഷണം നമ്മോടു ചിലത് പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ട് അയാൾ ഒരു മനുഷ്യനാണ് തീർത്തും വിഡ്ഢിയല്ലാത്ത ഒരു മനുഷ്യൻ എന്നാൽ അയാൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും എന്താണ് ശരി എന്നതിനെക്കുറിച്ച് ഒരു പ്രത്യേക കാഴ്ചപ്പാട് അയാൾക്കുണ്ട് അപ്പോൾ അയാളുടെ ആവേശത്തെ നാം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് പിന്നെ എങ്ങനെയാണ് നാം അയാളുടെ ചിരിയുടെ യഥാർത്ഥ പൊരുൾ വായിച്ചെടുക്കുന്നത് അത് എന്താണ് സൂചിപ്പിക്കുന്നത് അതായത് അയാളുടെ ആവേശം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ശരിക്കും ക്ഷീണിതരായ ഈ സ്ത്രീകളിലേക്ക് അയാൾ തൻ്റെ ആവേശം അടിച്ചേൽപ്പിക്കുന്നതു പോലെ തോന്നുന്നു എന്തുകൊണ്ടാണ് അയാൾ അപ്രകാരം ചെയ്യുന്നത് അത് നാം ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ് അതെ ഈ കഥയിൽ വിവരിക്കുന്നതിൽ നിന്നും വിഭിന്നമായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ഈയൊരു ഉല്ലാസയാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കു ലഭിക്കുന്നു അതിനാൽ ഇപ്പോൾ അവർ അവിടെ ആ തടാകത്തിൻ്റെ അരികിലുണ്ട് അവർ ചീട്ടുകളിച്ച് ആസ്വദിക്കുന്നു പുരുഷന്മാർക്ക് എങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്യുവാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ് കഥാകൃത്ത് പരിഹാസ രൂപേണ പറയുന്നത് അതായത് ആ നേരമ്പോക്കുകളിൽ പോലും തുടർച്ചയായി പങ്കെടുക്കാൻ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്ക് കഴിയുന്നില്ലത്രേ കാരണം ഉല്ലാസയാത്രയ്ക്കിടയിൽ കുട്ടികളെ നോക്കുന്ന ജോലിയും ആ സ്ത്രീകളുടെ മാത്രം ചുമതല ആണ് അതുകൊണ്ട് അവർ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉല്ലാസ യാത്രയിലും ആഘോഷങ്ങളിലും പുരുഷന്മാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കേണ്ടതും ആ സ്ത്രീകൾ തന്നെ അവർ അത് എങ്ങനെ തുടർന്നു കൊണ്ടു പോകുന്നു എന്ന് സവിശേഷമായ ഈയൊരു കഥാസന്ദർഭം നമ്മോടു പറയുന്നു അപ്പോൾ അവർ പഴയ പത്രക്കടലാസുകൾ കയ്യിൽ കരുതിയിരുന്നു കഥയിലെ ഈ ഒരു വാചകം തങ്ങളുടെ അമ്മമാരെ ശല്യം ചെയ്യാൻ എത്തുന്ന കുട്ടികളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് നിങ്ങൾക്കറിയാമോ ഡയപ്പറുകൾ വൃത്തി കേടായിട്ടുണ്ട് എന്നു പറഞ്ഞ് അരികിൽ എത്തുമ്പോൾ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതിനു മുമ്പ് അവരെ വൃത്തിയാക്കാനും മറ്റുമായി പഴയ പത്രക്കടലാസുകൾ കൂടി അമ്മമാർ കരുതണം എന്ന ഒരല്പം പരിഹാസം കലർന്ന പരാമർശമാണിത് കുട്ടികൾ അത്തരത്തിൽ ശല്യപ്പെടുത്തുമ്പോൾ അവർ എന്നാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അത് ഇപ്രകാരമാണ് വിവരിക്കുന്നത് അപ്പോൾ അവർ കുട്ടിയുടെ തലയിൽ വേഗത്തിൽ ഒരു തട്ടു കൊടുക്കും ഒന്നു വേദനിപ്പിക്കാൻ അതു മതി "അമ്മമാർ ഇടയ്ക്കിടെ കളി നിർത്തിവച്ച് എഴുന്നേറ്റു പോകുമ്പോൾ ഇളയ പെൺകുട്ടികൾ അവരുടെ സ്ഥാനം പിടിക്കുന്നു എങ്കിലും ഇടയ്ക്കിടെ അവർക്കും എഴുന്നേറ്റ് പോകേണ്ടി വരുമായിരുന്നു പുരുഷന്മാർക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തു കൊടുക്കുവാനായി അപ്രകാരം അമ്മമാർക്ക് കളി നിർത്തി വച്ച് പോകേണ്ടി വരുമ്പോൾ അവർ അതിലുള്ള തങ്ങളുടെ അനിഷ്ടം പ്രകടിപ്പിക്കുന്നു അത് ഏതു വിധത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ അവർ കുട്ടിയുടെ തലയിൽ ഒരു തട്ടു കൊടുക്കും അപ്പോൾ അമ്മമാരുടെ സ്ഥാനത്ത് കയറിയിരുന്ന് കളിക്കുന്ന ചെറുപ്പക്കാരായ പെൺകുട്ടികൾക്ക് പോലും തുടർച്ചയായി ആ നേരമ്പോക്കുകൾ ആസ്വദിക്കാൻ കഴിയുന്നില്ലത്രേ കാരണം പുരുഷന്മാർക്ക് കുടിക്കാൻ ഇടയ്ക്കിടെ വെള്ളം എടുത്തു കൊടുക്കാൻ വേണ്ടി അവർക്കും ഇടയ്ക്കിടെ കളി നിർത്തി വച്ച് എഴുന്നേൽക്കേണ്ടതായി വരുന്നു നിങ്ങൾക്കറിയാം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കുന്നത് എത്ര ലളിതമായ ഒരു കാര്യം ആണെന്നുള്ളത് എന്നാൽ തങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നതു പോലും പ്രത്യക്ഷത്തിൽ ആ പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടാണ് അതിനു പോലും പ്രത്യക്ഷത്തിൽ ആ പെൺകുട്ടികളും സ്ത്രീകളും അവരെ സേവിക്കണം അതിനാൽ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അദ്ധ്വാനത്തിൻ്റെ കാര്യത്തിലാണ് ഒരു പ്രത്യേക ലിംഗത്തിൽ പെട്ടവർ ഏർപ്പെടുന്നതും മറ്റേ ലിംഗത്തിൽ പെട്ടവർ മനഃപൂർവ്വം വിട്ടു നിൽക്കുന്നതുമായ സവിശേഷമായ ഈ അദ്ധ്വാനം ഈയൊരു കഥയിൽ വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഉല്ലാസ യാത്രയുടെ അടിസ്ഥാന രേഖ ഇതാണ് അവിടെ പുരുഷന്മാർ അനായാസം വിശ്രമിക്കുന്നു അതിനാൽ പുരുഷന്മാർക്ക് ഇതൊരു യഥാർത്ഥ ഉല്ലാസയാത്രയാണ് ഞാൻ പറഞ്ഞതുപോലെ അവർ ചീട്ടുകളിയും കുട്ടികളുമായിട്ടുള്ള കൊച്ചുവർത്തമാനങ്ങളും ആസ്വദിക്കുന്നു സ്ത്രീകൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടു വന്ന ഭക്ഷണവും സമീപത്ത് തയ്യാറാക്കുന്ന ലഘുഭക്ഷണവും ഒക്കെ ആസ്വദിക്കാൻ ആ പുരുഷന്മാർക്കു സാധിക്കുന്നു കാരണം അവർ പാത്രങ്ങളും ചട്ടികളും അടുപ്പുകളും എല്ലാം കൊണ്ടുവന്നിരുന്നല്ലോ സ്ത്രീകൾ ആ തടാക തീരത്തു വച്ച് ലഘു ഭക്ഷണങ്ങളായ ബജ്ജികളും പക്കോറകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഇവയെല്ലാം അവിടെയുണ്ട് ഇല്ലാത്തത് ഭക്ഷണം കഴിക്കുന്ന സ്ത്രീകളെ പറ്റിയുള്ള പരാമർശമാണ് പ്രത്യേകിച്ച് ഉല്ലാസ യാത്രയുടേതായ ഈയൊരു സന്ദർഭത്തിൽ പോലും അതായത് ആ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശം ഒരിക്കൽ പോലും കഥാകൃത്ത് നൽകുന്നതേ ഇല്ല അത് ആസ്വദിക്കുന്നതത്രയും പുരുഷന്മാരാണ് അതുകൊണ്ടാകാം സ്ത്രീകൾ തയ്യാറാക്കി നൽകുന്ന വിവിധ വിഭവങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാരുടെ ആസ്വാദനത്തിൻ്റെ തോതിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി കഥാകാരി ആ സ്ത്രീകൾ ഭക്ഷണം ആസ്വദിക്കുന്ന പ്രവർത്തനത്തെ മനഃപൂർവ്വം അടിച്ചമർത്തുന്നത് അഥവാ മറച്ചു വയ്ക്കുന്നത് അതിനാൽ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശത്തിനു മേലുള്ള ഈ അടിച്ചമർത്തൽ വളരെ രസകരമാണ് കാരണം ആ സ്ത്രീകൾ തീർച്ചയായും ഭക്ഷണം കഴിച്ചിരിക്കും എന്നത് വ്യക്തമാണ് പക്ഷേ കഥയിൽ ഒരിടത്തും അംബൈ ഇതേപ്പറ്റി പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ സ്ത്രീകൾ ഭക്ഷണം ആസ്വദിക്കുന്ന പ്രവർത്തനം ഇടയ്ക്കിടെ തടസപ്പെട്ടിരുന്നിരിക്കാം ഒരു പക്ഷേ അവർക്ക് ലഭിച്ചിരുന്നത് വളരെ തുച്ഛമായ അളവിലുള്ള ഭക്ഷണം മാത്രമായിരിക്കാം ഇതുപോലെ ഭക്ഷണകാര്യത്തിൽ സ്ത്രീകളുടെ ആസ്വാദനം കുറയ്ക്കുന്ന മറ്റു വശങ്ങളും ഉണ്ടാകാം ഇതിനെയെല്ലാം എടുത്തു കാട്ടാൻ വേണ്ടി ആയിരിക്കും കഥാകാരി അതേപ്പറ്റിയുള്ള വിവരണങ്ങൾ മനഃപൂർവം വിട്ടുകളഞ്ഞത് അതിനാൽ അദ്ധ്വാനത്തിൻ്റെ കാര്യത്തിലുള്ള ഈ അന്തരം കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസം പോലെ വളരെ വ്യക്തമാണ് സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്തു പുരുഷന്മാർ അത് കഴിച്ചു സ്ത്രീകൾ ആജ്ഞകളെ സ്വീകരിച്ചു പുരുഷന്മാർ ആ സ്ത്രീകളുടെ അദ്ധ്വാനത്തേയും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്കുള്ള മുൻഗണനയേയും നന്നായി ആസ്വദിച്ചു ഇവിടെ സവിശേഷമായ ഒരു പ്രസ്താവനയുണ്ട് ഇത് എപ്രകാരമാണ് എന്ന് ഈ കഥയുടെ വായനക്കാരോട് എടുത്തു പറയുവാനായി ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ആ സ്ത്രീകളുടെ അദ്ധ്വാനത്തിൻ്റെ തിളക്കത്തിന് വില കൊടുക്കുന്ന തരത്തിൽ പറയുന്ന ഒരു പ്രസ്താവന ആണ് ഇതിലെ വിവരണം വച്ചു നോക്കുമ്പോൾ ഈ പ്രസ്താവന നടത്തുന്നത് പുരുഷന്മാർ ആരോ ആണെന്ന് വ്യക്തമാണ് അത് പറയുന്നത് ഏതു വ്യക്തിയാണ് എന്നത് വ്യക്തമല്ലെങ്കിൽ കൂടി ഇത് ഏതൊരു പുരുഷനേയും പൊതുവായി പ്രതിനിധീകരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് അത് ഇപ്രകാരമാണ് ഉഗ്രൻ മണമാണല്ലോ എനിക്ക് പച്ചമുളകുകൾ മാത്രം ചേർത്ത് രണ്ടെണ്ണം കൂടി വേണം അതിനാൽ ആ പുരുഷ കഥാപാത്രത്തിന് പ്രിയങ്കരമായി ഒരു പ്രത്യേകമായ താല്പര്യമുണ്ട് അതിന് അനുസൃതമായി പച്ചമുളകു മാത്രം ചേർത്ത് ആ ഒരു വിഭവം അതും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വാദോടു കൂടി തനിക്കു മാത്രമായി പ്രത്യേകം ഉണ്ടാക്കി നൽകണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത് അതിനാൽ സ്ത്രീകൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി പാചകം ചെയേണ്ടതായി വരുന്നു പാത്രങ്ങൾ വൃത്തിയാക്കാൻ പോലും ആ പുരുഷന്മാർ മെനക്കെടുന്നില്ല ഉല്ലാസ യാത്രയ്ക്കിടയിൽ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി മാറ്റിവയ്ക്കുന്ന പണിയും ആ സ്ത്രീകൾക്കു തന്നെയാണ് അതിനാൽ ആ സ്ത്രീകൾക്ക് വീണ്ടും വളരെയധികം അദ്ധ്വാനം ചെയ്യേണ്ടതായി വരുന്നു അടിസ്ഥാനപരമായി അവർ എല്ലാവരും തന്നെ തൊഴിലെടുക്കുന്നവരാണ് ഈ കഥയിൽ അംബൈ അത് വ്യക്തമാക്കുന്നുണ്ട് ഇത് ഒരു പാവപ്പെട്ട കുടുംബമല്ല എന്ന വസ്തുത ഒരിക്കൽ കൂടി നാം ഓർക്കേണ്ടതാണ് ഇത് ഡോക്ടർമാരും ബാങ്കിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടുന്ന നല്ല നിലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു കുടുംബമാണ് വാസ്തവത്തിൽ മീനാക്ഷി എന്ന കഥാപാത്രം ഒരു പുസ്തകവുമായി അലഞ്ഞു നടക്കുന്നു അവൾ മലകൾ കയറുന്നു ഈ സ്ത്രീകൾക്ക് ഈയൊരു കുടുംബത്തിലെ അംഗമായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ധാരാളം സമ്പത്തുള്ളവരാണ് എന്നാൽ സാമ്പത്തികമായുള്ള ആ ഒരു നില ശാരീരികവും വൈകാരികവുമായ സ്വാതന്ത്ര്യം ആയി പരിവർത്തനം ചെയ്യാൻ എത്രമാത്രം സാധിക്കും എന്നതാണ് ചോദ്യം അടുക്കളയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നത് നമുക്ക് ചോദിക്കാവുന്ന വലിയ ഒരു ചോദ്യം തന്നെയാണ് അതിനാൽ കഥാകാരി ഇപ്പോൾ ചെയ്യുന്നത് എന്തെന്നാൽ ഈ ഉല്ലാസ യാത്രയിൽ അഥവാ പിക്നിക്കിൽ അംബൈ മറ്റൊരു കഥാപാത്രത്തെ കൂടി അവതരിപ്പിക്കുന്നു അതായത് മറ്റൊരു മരുമകളെ അവളുടെ പേര് കുസുമ എന്നാണ് അവൾ ആ കുടുംബത്തിലെ മൂന്നാമത്തെ മരുമകളാണ് കുടുംബം ഉല്ലാസ യാത്രയ്ക്കു ശേഷം ആ തടാകതീരത്തു നിന്നും വിട്ടു പോകുന്ന സമയത്ത് തിരക്കുകൂട്ടരുതേ എന്ന് മീനാക്ഷിയോട് അവൾ പറയുന്നുണ്ട് അതായത് മെല്ലെ പോയാൽ അവൾക്ക് ആ തടാകക്കരയിൽ ഇരിക്കുന്ന പക്ഷികളെ കണ്ട് ആസ്വദിക്കാൻ കഴിയും എന്നതിനാലാണ് കുസുമ അപ്രകാരം ആവശ്യപ്പെടുന്നത് ഇത് വളരെ ഹൃദയസ്പർശിയായ ഒരു സന്ദർഭമാണ് എന്നാൽ അവൾക്ക് അതിനുള്ള സമയം നൽകുന്നില്ല എന്നത് കഥയിലെ ഒരു ദുരന്തം തന്നെയാന്ന് അതായത് ആ ഒരു പ്രത്യേക സീസണിൽ മാത്രം ഉത്തരേന്ത്യയിലെ ആ പ്രത്യേക സ്ഥലത്തേക്ക് വന്നെത്തുന്ന ആ റഷ്യൻ പക്ഷികളെ നോക്കി ആനന്ദിക്കുവാനുള്ള സമയം പോലും അവൾക്ക് കിട്ടുന്നില്ല പക്ഷികളെ കണ്ടു കൊണ്ടു നിൽക്കാൻ തനിക്ക് സമയം ലഭിച്ചില്ലെന്ന് അവൾ പറയുന്നുണ്ട് വൈകുന്നേരത്തെ ഭക്ഷണം ഉള്ളതിനാൽ അതു തയ്യാറാക്കാനായി തിരികെ വീട്ടിലേക്ക് പോകാൻ തിരക്കുകൂട്ടേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ വേണ്ടത്ര സമയം കിളികളെ കണ്ടു കൊണ്ടു നിൽക്കാൻ കഴിഞ്ഞേനേ എന്നും അവൾക്ക് ഓർമ്മ വരുന്നു കാരണം വൈകുന്നേരത്തെ ഭക്ഷണമൊരുക്കാൻ വെളുത്തുള്ളിയുടെ തൊലി കളയുന്ന ജോലി അവളുടേതാണ് അതിനാൽ മീനാക്ഷിയും കുസുമയും തമ്മിലുള്ള സംഭാഷണം ഈ കഥയിലെ വളരെ വൈകാരികമായ ഒരു നിമിഷമാണ് അപ്പോൾ ആ തടാകത്തിൻ്റെ അരികിൽ ആ കിളികളെ അല്പ സമയം കണ്ടു നിൽക്കാൻ മീനാക്ഷി അവൾക്ക് സൌകര്യം ഉണ്ടാക്കിക്കൊടുക്കുന്നു നിങ്ങൾക്കറിയാവുന്നതു പോലെ ഈയൊരു സന്ദർഭത്തെപ്പറ്റിയുള്ള കുസുമയുടെ വെളിപ്പെടുത്തൽ ആ ഉയർന്ന മദ്ധ്യവർഗത്തിൻ്റെ അഥവാ ആ വരേണ്യ കുടുംബത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു നിങ്ങൾക്കറിയാവുന്നതു പോലെ ഒരു തരത്തിൽ അത് ശരിക്കും ആ സ്ത്രീ ജനങ്ങളുടെ അവസ്ഥയെ പരമാവധി വേർതിരിച്ചു കാട്ടിത്തരുന്നുണ്ട് അതായത് ഈ സ്ത്രീജനങ്ങളുടെ അദ്ധ്വാനത്തിലൂടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ആശയങ്ങൾ തഴച്ചു വളരുന്നു അപ്രകാരം നമുക്ക് കുസുമ എന്ന ഈ സ്ത്രീ കഥാപാത്രത്തിൻ്റെ ഒരു ചെറിയ രേഖാചിത്രം ലഭിക്കുന്നു അവൾ ആ കുടുംബത്തിലെ ഏറ്റവും അനുയോജ്യമായ മരുമകളാണ് ആ കുടുംബത്തിലെ മൂന്നാമത്തെ മകൻ വിവാഹം കഴിക്കുമ്പോൾ ഏതുതരത്തിലുള്ള മരുമകളെയാണ് ഇഷ്ടമെന്ന് ഒരിക്കൽ മീനാക്ഷി ജിജിയോട് ചോദിച്ചിരുന്നുവത്രേ വിദ്യാസമ്പന്നയായ നല്ല നിറമുള്ള ശാന്തശീലയായ മരുമകളെയാണ് വേണ്ടത് എന്ന് അപ്പോൾ തന്നെ ജിജി മറുപടിയും പറയുന്നു ആ പറഞ്ഞത് ശരിയാണെന്ന് പാപ്പാജി സമ്മതിക്കുകയും ചെയ്യുന്നു അതായത് ഭർത്താവ് തൻ്റെ ഭാര്യയുടെ നിരീക്ഷണങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നു വിദ്യാസമ്പന്നയും നല്ല നിറമുള്ളവളും ശാന്തശീലയുമായ മരുമകൾ എന്നതിലെ ഈ വിശേഷണങ്ങളുടെ കൂട്ടം വാസ്തവത്തിൽ മീനാക്ഷിക്കെതിരെ ഉള്ള ഒരു പ്രഹരം കൂടിയാണ് അങ്ങനെ പറയാൻ കാരണം മീനാക്ഷി വിദ്യാസമ്പന്ന ആയവളൊക്കെക്കെത്തന്നെ എങ്കിലും അവൾ അത്ര സുന്ദരിയല്ല മാത്രമല്ല മീനാക്ഷി നിശബ്ദ ആണെങ്കിലും ശാന്തമായ സ്വഭാവത്തോടുകൂടിയവൾ അല്ല വാസ്തവത്തിൽ ഈ പ്രത്യേക കഥയെക്കുറിച്ചുള്ള എൻ്റെ ആദ്യ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും പാത്രം കഴുകുമ്പോളെല്ലാം വെള്ളക്കെട്ടുണ്ടാകുന്ന ആ അടുക്കളയിലെ അസൌകര്യത്തെപ്പറ്റി അവൾ മാത്രമാണല്ലോ എതിർത്തു സംസാരിക്കുന്നത് അതിനാൽ ഈ ഭാര്യാഭർത്താക്കന്മാർ അതായത് പാപ്പാജിയും ജിജിയും പറഞ്ഞു വയ്ക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒഴികെ മീനാക്ഷിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ത്രീയെ മരുമകളായി വേണം എന്നതാണ് അതായത് അവർക്ക് പുതിയ മരുമകളായി നല്ല സൌന്ദര്യവും ശാന്തശീലവും അതേ സമയം തന്നെ മീനാക്ഷിയേപ്പോലെ വിദ്യാസമ്പന്നതയും കൂടി ഉള്ള ഒരു സ്ത്രീയെ മരുമകളായി വേണം അത്തരത്തിൽ ഒരു സ്ത്രീയെ കണ്ടെത്തുക അസാധ്യമാണെന്ന് മീനാക്ഷി തമാശയായി മനസ്സിൽ വിചാരിക്കുന്നു അവളുടെ ചിന്തയിൽ നല്ല സൌന്ദര്യമുള്ളതും വിദ്യാസമ്പന്നയും ശാന്തശീലയുമായി എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പെൺകുട്ടി എന്നൊന്നില്ല എന്നാൽ ആ കുടുംബം അത്തരമൊരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു കുസുമ ആണ് ആ പെൺകുട്ടി പാപ്പാജിയും ജിജിയും ആഗ്രഹിച്ച ആ സവിശേഷമായ ആദർശത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് അവളെന്ന് മീനാക്ഷി പറയുന്നുണ്ട് സത്യത്തിൽ ഈ കഥ ആദ്യമായി വായിച്ചപ്പോൾ എനിക്കും ഇതൊരു അത്ഭുതമായിരുന്നു കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാമോ അവൾ രാഷ്ട്രതന്ത്രത്തിൽ എംഎ ക്കാരി ആണ് വെറും ബിഎ ക്കാരി അല്ല അതായത് രാഷ്ട്രതന്ത്രത്തിൽ വെറും ബിരുദമല്ല ബിരുദാനന്തര ബിരുദം അവൾക്കുണ്ട് അതിനു പുറമേ അവൾക്ക് ഫ്രഞ്ചു ഭാഷയിൽ ഡിപ്ലോമയും ഉണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ഡിപ്ലോമകൾ ഒക്കെ പൊതുവേ അത്തരം പെൺകുട്ടികൾ വിവാഹത്തിന് ശേഷമുണ്ടായേക്കാവുന്ന സുപ്രധാനമായ ചില ഉപയോഗങ്ങൾക്കു വേണ്ടി നേടുന്നതാകാം എന്നും കഥാകാരി പറയുന്നുണ്ട് അതായത് ഭർത്താവിന് രാജ്യത്തിനു പുറത്ത് ജോലി കിട്ടിയാലോ അയാൾക്ക് ഒരു നയതന്ത്രജ്ഞനാകാൻ കഴിയുന്നു എങ്കിൽ അല്ലെങ്കിൽ ഒരു എംബസിയിൽ ജോലി കിട്ടിയാൽ എന്താകും സ്ഥിതി അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ഫ്രഞ്ചു ഭാഷ പ്രയോജനപ്പെട്ടേക്കാം എന്നാൽ വീണ്ടും തിരിഞ്ഞു നോക്കിയാൽ രാഷ്ട്രതന്ത്രത്തിലെ എംഎ എന്നു പരാമർശിക്കുന്ന സന്ദർഭത്തെ ഈ കഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ രാഷ്ട്രതന്ത്രത്തിൽ എംഎ കഴിഞ്ഞ ഒരു പെൺകുട്ടി ആ കുടുംബത്തിലുണ്ട് എന്ന സൂചനയാണ് ഉള്ളത് അവൾ അതായത് കുസുമ ആ അടുക്കളയിലെ അസൌകര്യങ്ങൾക്കെതിരെ ഒരു വാക്കുപോലും ഉന്നയിക്കുന്നില്ല അവർക്കുള്ള സൌകര്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ആ അടുക്കളയെപ്പറ്റി നിങ്ങൾക്കും അറിയാം ആ അടുക്കളയുടെ അവസ്ഥയെക്കുറിച്ച് മീനാക്ഷി എതിർപ്പ് ഉന്നയിക്കുമ്പോൾ പോലും കുസുമ വളരെ നിശബ്ദയാണ് അതിനാൽ കുസുമയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അഭിപ്രായപ്പെടുന്നത് ഇത് അല്പം വിരോധാഭാസമുള്ള ഒരു ബിരുദമാണ് എന്നതാണ് വീണ്ടും കഥാകാരി ചൂണ്ടിക്കാണിച്ചതുപോലെ വിവാഹസാധ്യതകൾ മുന്നിൽക്കണ്ട് പെൺകുട്ടികൾ പലതരം ഡിപ്ലോമകൾ സ്വന്തമാക്കുന്നു ആ ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ ഭാവിയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന വസ്തുതയും നിങ്ങൾക്കറിയാം രാഷ്ട്രതന്ത്രത്തിലുള്ള ബിരുദത്തെക്കുറിച്ച് ഞാൻ ഇപ്പോളും അത്ഭുതപ്പെടുന്നു എങ്കിലും അവരുടെ പഠന മേഖലകളുടെ തിരഞ്ഞെടുപ്പിനു പിന്നിലെ യുക്തി എന്തായിരിക്കും ശരി തന്നെയാണ് അതിനാൽ ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് എന്ന് കഥയിൽ പറയുന്നുണ്ട് ഈ കാത്തിരിപ്പിൻ്റെ സമയം എന്നത് അവൾ തൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി കാത്തിരുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആ കാലയളവിൽ തലയിണകളിലും തലയിണകളുടെ കവറുകളിലും ചിത്രത്തുന്നൽ ചെയ്യുന്നതിലും കൈകൊണ്ട് ചെറിയ കരകൌശലവസ്തുക്കൾ നിർമ്മിക്കുന്നതിലും വള്ളികളും ചിത്രത്തുന്നലും കൊണ്ട് സാരികൾ അലങ്കരിക്കുന്നതിലും ഒക്കെ കുസുമ പരിശീലനം നേടിയിരുന്നു അലങ്കാര പുഷ്ങ്ങൾ ബേക്കറി സാധനങ്ങൾ ജാം ജ്യൂസ് അച്ചാറുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിൻ്റേയും തയ്യലിൻ്റേയും ക്ലാസ്സുകൾ അവൾ നഷ്ടപ്പെടുത്തിയിരുന്നില്ല അവൾ ഈ കഴിവുകളെല്ലാം പഠിച്ചെടുത്തു അവൾ എല്ലാ സവിശേഷ ഗുണങ്ങളും തികഞ്ഞ മരുമകളായിരുന്നു " വീണ്ടും ഒട്ടേറെ വിശദാംശങ്ങൾ നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കും അതായത് ഈ ഉദ്ധരണിയിലും വിശദാംശങ്ങളിലും ഇവയെ നമുക്ക് രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം നിങ്ങൾക്കറിയാവുന്നതു പോലെ ബേക്കറി സാധനങ്ങൾ ജാം ജ്യൂസുകൾ അച്ചാറുകൾ തുടങ്ങിയവ തയ്യാറാക്കുന്നതിനുള്ള പരിശീലനങ്ങളെ അടുക്കളയുമായി ബന്ധപ്പെട്ടവ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം ഇവയെല്ലാം അടുക്കളയുമായും ഭക്ഷണവുമായും ബന്ധപ്പെട്ടവ ആണ് ബാക്കിയുള്ള പരിശീലനങ്ങളും പുഷ്പാലങ്കാരവും ഒക്കെ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടാൻ ഉപയോഗപ്രദമാകുന്ന സൌന്ദര്യാത്മകമായ വശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇവിടെ സ്ത്രീയുടെ അലങ്കാര വസ്തുവിനെപ്പറ്റി സൂചിപ്പിക്കുന്നു ഒരു തരത്തിൽ നോക്കിയാൽ സ്ത്രീ തന്നെ ഒരു അലങ്കാര വസ്തുവാണ് ഒരു സ്ത്രീയുടെ ഈ അലങ്കാര വസ്തുക്കൾ അവളെ മാത്രമല്ല വീടിനേയും അലങ്കരിക്കാൻ സഹായകമാണ് അതായത് പുഷ്പാലങ്കാരം പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ വീടിനെ ഭംഗിയുള്ളതാക്കാൻ അവൾക്ക് സാധിക്കും മറ്റൊരു വിധത്തിലും അവൾ വളരെ ഉപകാരപ്രദമായ മരുമകളാണ് കാരണം അവൾക്ക് തയ്യൽ പണികൾ അറിയാവുന്നതിനാൽ വസ്ത്രങ്ങൾക്ക് സംഭവിക്കുന്ന ചില കേടുപാടുകൾ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ അവൾക്ക് കഴിയും വസ്ത്രങ്ങളിൽ സംഭവിക്കുന്ന അത്തരം കേടുപാടുകളിൽ ചിലതെങ്കിലും കണ്ണുനീർ പൊഴിയുന്നതിന് വരെ കാരണം ആയേക്കാവുന്നവയുമാണല്ലോ അങ്ങനെ അവൾ വളരെ വളരെ ഉപകാരപ്രദമായി മാറുന്നു വീണ്ടും നിങ്ങൾക്കറിയാമോ ചിത്രത്തുന്നൽ ചെയ്ത തലയണകളും തലയിണ കവറുകളും കൈകൊണ്ട് നിർമ്മിച്ച ചെറിയ കരകൌശല വസ്തുക്കളും സൌന്ദര്യാത്മകതയുടെ ഗണത്തിൽ ഉൾപ്പെടും അതിനാൽ സൌന്ദര്യാത്മകവും ഉപകാരപ്രദവും ആയ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ആയാലും അടുക്കളയിലേക്ക് ആവശ്യമുള്ള കഴിവുകളുടെ കാര്യത്തിൽ ആയാലും അവൾ ജീവിതത്തിൻ്റെ ഉപയോഗപ്രദമായ പക്ഷത്തേക്ക് വരും അതിനാൽ കുസുമ എല്ലാം തികഞ്ഞ ഒരു മരുമകളാണ് ഉന്നതമായ കഴിവുകളുള്ള മരുമകൾക്ക് ആവശ്യമായ എല്ലാ ഗുണഗണങ്ങളും അവൾ ഉൾക്കൊണ്ടിട്ടുണ്ട് മാത്രമല്ല അവൾ വളരെ നല്ല നിലയിൽ പഠിച്ചവളും ആണ് അവൾക്ക് ഫ്രഞ്ചുഭാഷയിൽ ഡിപ്ലോമയുണ്ട് അവൾക്ക് ചിത്രത്തുന്നൽ അറിയാം അവൾക്ക് തയ്യൽ അറിയാം അച്ചാറുണ്ടാക്കലും പുഷ്പാലങ്കാരവും അവൾക്കറിയാം അതിനാൽ അവൾ ഇത്തരം കഴിവുകൾ എല്ലാം തികഞ്ഞ മരുമകളാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അപൂർണ്ണമായ ആ അടുക്കളയോട് അവൾ എതിർപ്പൊന്നും ഉന്നയിക്കുന്നുമില്ല വാസ്തവത്തിൽ അവളുടെ അമ്മായിയമ്മയുടെ വീട്ടിലെ ആ അടുക്കളയിൽ മറ്റ് സ്ത്രീകൾ ചെയ്യുന്നതുപോലെ അവളും കഠിനമായ അദ്ധ്വാനം നടത്തുന്നു മാത്രമല്ല ഉല്ലാസയാത്രയുടെ പശ്ചാത്തലത്തിൽ പക്ഷികളെ വേണ്ടത്ര സമയം കണ്ട് ആസ്വദിക്കാൻ അവൾക്ക് കഴിയുന്നില്ല അത്തരമൊരു ലളിതമായ കാര്യം പോലും അവൾക്ക് സാധിക്കുന്നില്ല പ്രകൃതിയുടെ സൌന്ദര്യമോ പ്രകൃതിയുടെ മറ്റുള്ള വശങ്ങളോ അവൾ ഇപ്പോൾ ആസ്വദിക്കുന്നില്ല എന്നാൽ അത്തരം സൌഭാഗ്യങ്ങളെല്ലാം സ്കൂളിൻ്റെ മൈതാനത്ത് താമസിക്കുന്ന വിധവയായ ഉദ്യോഗസ്ഥ അതായത് വീണാമൌസിക്കു ലഭിക്കുന്നുണ്ടു താനും അവൾ ഒരു വിധവ ആയിട്ടു പോലും ഇവിടെ വളരെ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീയും സ്വന്തം നിലയിൽ തനിച്ചു താമസിക്കുന്ന സ്ത്രീയും തമ്മിലുള്ള ആ വലിയ വൈരുദ്ധ്യം നമുക്കു കാണുവാൻ സാധിക്കും അല്പം കൂടി സൂക്ഷ്മമായി നോക്കിയാൽ കുസുമ അത്ര സന്തോഷവതി ഒന്നുമല്ല അവളുടെ അസന്തുഷ്ടിയുടെ വളരെ പെട്ടെന്ന് ചൂണ്ടിക്കാട്ടാവുന്ന ഒരു കാരണം എന്നത് അവൾക്ക് ഗർഭം ധരിക്കാനുള്ള കഴിവില്ല എന്നതാണ് അത് അവളെ വളരെ അസന്തുഷ്ടയാക്കുകയും അവൾ അതോർത്ത് നിശബ്ദമായി കരയുകയും ചെയ്യുന്നു നിങ്ങൾക്കറിയാം അവൾ സഹിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടാൽ അവൾ കരയുന്നു എന്നതിൽ അത്ര വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല അവൾ നിശബ്ദമായി വീണ്ടും വീണ്ടും കരയുന്നു അത് അവളുടെ സൌമ്യമായ മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അവൾ ഒരു കോലാഹലവും സൃഷ്ടിക്കുന്നില്ല അവൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല അവൾ മറ്റുള്ളവരിൽ നിന്നു വേറിട്ടുനിൽക്കാനും ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല പ്രത്യുൽപാദന ശേഷിയുടെ കുറവ് സൂചിപ്പിക്കുന്നത് ഇതാണ് ഒരുപക്ഷേ ആ വീട്ടിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ലാ എന്നതും ഭർത്താവുമായി അവളുടെ എല്ലാ അസന്തുഷ്ടികളെക്കുറിച്ചും സംസാരിച്ചു തീർക്കാൻ അവൾക്ക് കഴിയുന്നില്ല എന്നതും കൂടുതൽ കൂടുതൽ അസന്തുഷ്ടികൾ ഉണ്ടാകാൻ ഒരു കാരണമായിത്തീർന്നിരിക്കാം അതിനാൽ നമുക്ക് ഊഹിക്കാം അതായത് കുസുമ എന്ന കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലത്തിലും കഥയിലെ വിവരണങ്ങളിൽ നിന്നും ലഭ്യമായ ഘടകങ്ങൾ ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ ഊഹിക്കുവാൻ നമുക്കു സാധിക്കും ഈ അദ്ധ്യായം കണ്ടു കൊണ്ടിരുന്നതിന് നന്ദി അടുത്ത അദ്ധ്യായത്തിൽ ഞാൻ ഈ ചർച്ച തുടരാം